അവിഭാജ്യ സമവാക്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ നടത്തിയ ചർച്ച തുടരുമ്പോൾ ഞങ്ങൾ നോക്കിയത് ഒരു ലളിതമായ സ്റ്റാറ്റിക് കേസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പ്രശ്നമാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ കണ്ടെത്തി ഇപ്പോൾ ഞങ്ങൾ ഇലക്ട്രോഡൈനാമിക്സ് മേഖലയിലേക്ക് നീങ്ങാൻ തുടങ്ങും അവിടെ സമയം വ്യത്യാസമുള്ള ഒരു മേഖലയും ഉണ്ട് കാരണം ഈ കോഴ്സിൽ ഞങ്ങൾക്ക് താൽപ്പര്യമുള്ള പ്രധാന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതാണ് അതിനാൽ നിങ്ങൾ നോക്കിയത് വളരെ ലളിതമായ ഒരു അവിഭാജ്യ സമവാക്യമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാക്കാൻ ശ്രമിക്കും അതിനാൽ ഈ മൊഡ്യൂളിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ ഇവയാണ് തരംഗത്തെ എങ്ങനെ എവിടെ വളയുന്നു എന്നതിനെക്കുറിച്ചുള്ള ചില ശാരീരിക അവബോധത്തോടെ ഞങ്ങൾ ആരംഭിക്കും ഈ ആശയത്തിന്റെ ആശയം എങ്ങനെയാണ് ഹെൽമോൾട്ട്സ് സമവാക്യം എന്ന് വിളിക്കപ്പെടുന്നതിലേക്കും ശരി വരുന്ന സമഗ്ര സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വഴികളിലേക്കും നമ്മെ നയിക്കുന്നതെന്ന് അവിടെ നിന്ന് നമുക്ക് കാണാം അതിനാൽ വലത്തേക്ക് വളയുന്ന തിരമാലകളെക്കുറിച്ചുള്ള ആശയത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം അതിനാൽ മുറിയിൽ മൊബൈൽ സ്വീകരണം എന്ന ഈ ലളിതമായ ആശയത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാവരും ഇവിടെ ഈ മുറിയിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ ഫോണുകൾ സൈലന്റ് ആണെങ്കിൽ പ്രതീക്ഷയോടെ പുറത്തെടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ശരിയായ സിഗ്നൽ ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തണം അതിനാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഇതിനെ നമുക്ക് മികച്ച കാഴ്ച എന്ന് വിളിക്കാം ഇത് ഒരു ജാലകം ആണെന്ന് പറയട്ടെ ഇവിടെ ഒരു വാതിലുണ്ടെന്നും നിങ്ങളുടെ മൊബൈൽ ടവർ ഇവിടെ എവിടെയോ ഉണ്ടെന്നും പറയാം അത് എല്ലായിടത്തും സിഗ്നലുകൾ അയയ്ക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കും മൊബൈൽ ടവറിനുമിടയിൽ ഒരു നേർരേഖയുണ്ടാകാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം അതിനാൽ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേർരേഖ വരച്ചാൽ അത് പോകില്ല മറുവശത്ത് ഇതുപോലെ പോകുന്ന ഒരു പാതയുണ്ട് തുടർന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരൂ ശരി അതിനാൽ ഇത് വെളിച്ചമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ടവർ കാണാൻ കഴിയുമായിരുന്നോ തീർച്ചയായും ശരിയല്ല നിങ്ങൾക്ക് ടവർ കാണാൻ കഴിയാത്ത ഒരു രേഖയും ഇല്ല പക്ഷേ നന്ദി ഇത് വെളിച്ചമല്ല ഇത് ഒരു മൈക്രോവേവ് ആണ് കാഴ്ചയുടെ ഒരു വരയും ഇല്ലെങ്കിലും ഇവിടെ ഞങ്ങളുടെ ഫോണിൽ സ്വീകരണം ലഭിക്കുമെന്ന് അനുഭവപരമായി ഞങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ തിരമാല എങ്ങനെയോ പ്രതിബന്ധങ്ങൾക്ക് ചുറ്റും വളയുന്നുവെന്നും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അത് സ്വീകരിക്കാൻ കഴിയുമെന്നും ചില ആശയങ്ങളുണ്ട് ഭൌതികശാസ്ത്രത്തിലും ഇത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും യങ്ങിന്റെ ഡബിൾ സ്ലിറ്റ് പരീക്ഷണവും ഹൈസ്കൂളിൽ തന്നെ ഇവയെല്ലാം പഠിച്ചിട്ടുണ്ട് അതിനാൽ ഇവിടെ ഒരു ലൈറ്റ് ബൾബ് ഉണ്ടെന്നും ഞാൻ ഇവിടെ ഒരു സ്ലിറ്റും സ്ക്രീനും ഇട്ടിട്ടുണ്ടെന്നും സങ്കൽപ്പിക്കുക എന്നതാണ് അടിസ്ഥാന ആശയം ഇപ്പോൾ ഈ സ്ലിറ്റ് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ വളരെ വലുതാണ് ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്കറിയാവുന്ന 100 വാട്ട് ബൾബ് എടുക്കുന്നു അതിൽ ഒരു ദ്വാരമുള്ള ഒരു തടസ്സം ഞാൻ വയ്ക്കുന്നു ആ ദ്വാരം നിങ്ങൾക്ക് 10 സെന്റീമീറ്റർ അറിയാമെന്ന് പറയാം അതിനാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സ്ഥലത്തിന്റെ വലുപ്പം എന്താണ് അതിനാൽ നമുക്ക് ഇതിനെ ഒരു സ്ക്രീൻ എന്ന് വിളിക്കാം ഈ ദ്വാരത്തിന് 10 സെന്റീമീറ്റർ വീതിയുണ്ടെങ്കിൽ ഭിത്തിയിൽ നിങ്ങൾ എങ്ങനെ ഒരു സ്പോട്ട് സൈസ് കാണും വിദ്യാർത്ഥി ഏകദേശം ഏകദേശം 10 സെന്റീമീറ്റർ വലതുവശത്ത് വളയുന്നില്ല കാരണം ഇത് 10 സെന്റീമീറ്ററാണ് ഈ പ്രകാശം ഒരു നേർരേഖയിൽ പോകും അതിനാൽ നിങ്ങൾ കാണുന്നത് അതാണ് എന്നാൽ നിങ്ങൾ സ്ലിറ്റിന്റെ വലുപ്പം ചുരുക്കാൻ തുടങ്ങുമ്പോൾ അതിനാൽ നിങ്ങൾ സ്ലിറ്റിന്റെ വലുപ്പം വളരെ ചെറുതാക്കുമ്പോൾ ഇതാണ് നിങ്ങളുടെ സ്ക്രീൻ അപ്പോൾ സംഭവിക്കുന്നത് സ്ക്രീനിന്റെ വലതുവശത്ത് ഒരു ഇടപെടൽ പാറ്റേൺ ഉണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും നിരീക്ഷിക്കും പ്രകാശം വെറും കിരണങ്ങൾ മാത്രമാണെന്ന് ഞാൻ അനുമാനിച്ചാൽ വിശദീകരിക്കാൻ കഴിയാത്ത ഇതുപോലൊന്ന് സംഭവിക്കുന്നു കിരണങ്ങളാണെങ്കിൽ ഇതാണ് ചിത്രം എന്നാൽ ഇത് തരംഗചിത്രമാണ് അതിനാൽ ഈ രണ്ട് ഉദാഹരണങ്ങളിലും ഉദാഹരണം 1 ഉം ഉദാഹരണം 2 ഉം തരംഗങ്ങൾ ശരിയായി വളയുന്നതായി തോന്നുന്ന ഒരു ഭൌതിക ആശയം നമുക്ക് ലഭിക്കും അതിനാൽ ഹ്യൂജൻസ് തത്വം എന്ന് വിളിക്കപ്പെടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചു എല്ലാവരും സ്കൂളിൽ ഈ വാക്ക് കണ്ടത് ശരിയാണോ അതിനാൽ യാത്രകൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തരംഗമുണ്ട് ഈ സാഹചര്യത്തിൽ പിളർപ്പിനെ ബാധിക്കുകയും ദ്വിതീയ തരംഗങ്ങൾ ശരിയായി സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു ആശയം അതിനാൽ ഞാൻ ഇത് ഇവിടെ വരച്ചാൽ അതിനാൽ തിരമാലകൾ പുറപ്പെടുവിക്കുന്ന ഒരു പ്രകാശ സ്രോതസ്സ് ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവയാണ് തരംഗങ്ങളുടെ മുന്നണികൾ ഇതും ഈ രണ്ടുപേരും ഇവിടെ എത്തുമ്പോൾ അവർ ദ്വിതീയ സ്രോതസ്സുകളായി മാറുകയും അവർ സ്വന്തം തരംഗങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതിനാൽ ഇത് ആദ്യത്തെ ആളിൽ നിന്നുള്ള തരംഗങ്ങളാണ് ഇത് രണ്ടാമത്തെ ആളിൽ നിന്നുള്ള തരംഗങ്ങളാണ് ഈ സ്ക്രീനിൽ ഇതിന്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത് ഈ തരംഗങ്ങൾ ശരിയായി ഇടപെടുന്നു നിങ്ങൾ നിരീക്ഷിക്കുന്നു ഇടപെടൽ പാറ്റേൺ ഇവിടെ ദൃശ്യമാകുന്നു ശരി അതിനാൽ ദ്വിതീയ തരംഗ മുന്നണി എന്ന ആശയം നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ നിന്ന് ഇപ്പോൾ ബാക്കിയുള്ളവ ദ്വിതീയ തരംഗ മുന്നണികൾ ലഭിച്ചുകഴിഞ്ഞാൽ പ്രാഥമിക ആവേശത്തെക്കുറിച്ച് എനിക്ക് മറക്കാൻ കഴിയും കൂടാതെ സിദ്ധാന്തവും പരീക്ഷണവും തമ്മിലുള്ള ഈ മികച്ച കരാർ എനിക്ക് ലഭിക്കും ഇടപെടൽ ശരി വിശദീകരിക്കുക അതിനാൽ നിങ്ങൾ ഈ വീതിയിൽ വ്യത്യാസം വരുത്തുമ്പോൾ നിങ്ങൾ ഈ വീതി മാറ്റുമ്പോൾ ഇടപെടൽ പാറ്റേൺ മാറുന്നത് നിങ്ങൾ നിരീക്ഷിക്കും അത് അർത്ഥമാക്കുന്നത് ഞാൻ ഇടപെടൽ അവസ്ഥ മാറ്റുന്നതിനാൽ ഞാൻ ശരിയാണ് ആപേക്ഷിക പാത വ്യത്യാസം മാറുന്നു ഞാൻ ഈ സ്ലിറ്റ് നീക്കുമ്പോൾ അതിനാൽ ഈ മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് ഈ ഹ്യൂജൻസ് തത്വം എങ്ങനെ പഠിക്കാം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുടെ എല്ലാ സങ്കീർണ്ണതകളോടും കൂടി അതിനെ എങ്ങനെ നമ്മുടെ നിലവിലെ ധാരണയിലേക്ക് കൊണ്ടുവരാം ചുരുക്കത്തിൽ എനിക്ക് ഇത് ഗണിതശാസ്ത്രപരമായി ശരിയാക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ മൈക്രോവേവ് ടവർ നിങ്ങളുടെ തരംഗങ്ങൾ അയയ്ക്കുന്ന ഈ പ്രശ്നത്തിന് എനിക്ക് ഇത് ഗണിതശാസ്ത്രപരമായി പഠിക്കാനാകുമോ അത് താൽപ്പര്യമുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ടെലികോം ദാതാവിനെ അറിയാവുന്ന വിവിധ കാര്യങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എന്റെ എല്ലാ സബ്സ്ക്രൈബർമാർക്കും നല്ല സിഗ്നൽ ശക്തി ലഭിക്കുകയെന്ന് മനസിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞങ്ങളുടെ ആവശ്യകത ശരിയാണ് അതിനാൽ ചില തടസ്സങ്ങൾ നൽകിയിട്ടുള്ള ഫീൽഡുകൾ എന്താണെന്ന് അനുകരിക്കാനും പ്രവചിക്കാനും എനിക്ക് കഴിയണം അതിനാൽ ഇത് പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രചോദനം ആകാം അതിനാൽ ചുരുക്കത്തിൽ ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്താണ് നൽകിയിരിക്കുന്നത് ഈ മൈക്രോവേവ് പ്രശ്നം പോലുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്താണ് നൽകിയിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു വിദ്യാർത്ഥി ഉറവിട സ്ഥാനം ഉറവിടത്തിന്റെ സ്ഥാനം അതിനാൽ ഗോപുരം ഇവിടെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മറ്റെന്താണ് അറിയേണ്ടത് വിദ്യാർത്ഥി തടസ്സങ്ങൾ തടസ്സങ്ങൾ അതിനാൽ മുറിയുടെ ജ്യാമിതി നമുക്ക് കൃത്യമായി നൽകണം മറ്റെന്താണ് വിദ്യാർത്ഥി നിരീക്ഷകൻ നിരീക്ഷകൻ ശരിയാണ് അതിനാൽ നിരീക്ഷകൻ എവിടെയും ആയിരിക്കാം അതിനാൽ എല്ലായിടത്തും ഫീൽഡുകൾ ശരിയാക്കാൻ ഞാൻ ശ്രമിക്കും അതിനാൽ ഇതാണ് എനിക്ക് നൽകിയിരിക്കുന്നത് എനിക്ക് സ്രോതസ്സുകളുടെ സ്ഥാനം നൽകിയിരിക്കുന്നു എനിക്ക് ജ്യാമിതിയും എന്റെ ജ്യാമിതിയും നൽകിയിരിക്കുന്നു മാക്സ്വെൽ ചോദ്യങ്ങളിൽ ജ്യാമിതി എൻകോഡ് ചെയ്തിരിക്കുന്ന ജ്യാമിതിയിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയാം വിദ്യാർത്ഥി പെർമിറ്റിവിറ്റിയും പെർമിറ്റിവിറ്റിയും പെർമിറ്റിവിറ്റിയും പെർമിറ്റിവിറ്റിയും അതിനാൽ അടിസ്ഥാനപരമായി അതിനാൽ ഈ സമവാക്യങ്ങൾ ശരിയാക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഇതാണ് അതിനാൽ നിങ്ങൾ നഷ്ടപ്പെടുമ്പോഴെല്ലാം ഈ ചിത്രത്തിലേക്ക് തിരികെ വരിക ഈ ചിത്രത്തിൽ ഞങ്ങൾ ഇതുവരെ എന്താണ് പരിഹരിച്ചതെന്ന് നോക്കൂ അതിനാൽ ഇപ്പോൾ ഈ സമവാക്യങ്ങൾ ഗണിതശാസ്ത്രപരമായി സജ്ജീകരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പോകാം അതിനാൽ കാര്യങ്ങൾ വളരെ ലളിതമാക്കാൻ ഞങ്ങൾ രണ്ട് മേഖലാ പ്രശ്നം എടുക്കാൻ പോകുന്നു അതിനാൽ ഇവിടെ ഒരു തടസ്സമുണ്ടെന്നും അത് മറ്റൊരു മാധ്യമത്തിനുള്ളിലാണെന്നും നമുക്ക് പറയാം നമുക്ക് ഈ കാര്യം ഇങ്ങോട്ട് വിളിക്കാം ചില ഉറവിടങ്ങൾ ഇവിടെയുണ്ട് അതിനാൽ ഇതിനെ ഒരു ഉറവിടം എന്ന് വിളിക്കാം അതിനാൽ ഇത് കൃത്യമായി നമ്മുടെ മൊബൈൽ ടവർ പ്രശ്നം പോലെയാണ് J മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ ആണ് ഇവിടെ ഉള്ളിലെ ഈ ഒബ്ജക്റ്റ് ചിലതാണ് ചില തടസ്സങ്ങൾ എന്തും ശരിയാകാം എന്നാണ് അതിൽ കൂടുതൽ കൂടുതൽ തടസ്സങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് പിന്നീട് നമുക്ക് പഠിക്കാം എന്നാൽ ഒരു തടസ്സം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായി മറ്റെല്ലാം മനസ്സിലാകുമായിരുന്നു അതിനാൽ ഇതാണ് പ്രശ്നം സജ്ജീകരിച്ചത് നിങ്ങളുടെ അഭിപ്രായത്തിൽ മേഖല 1 നെ മേഖല 2 ൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് ശരി വ്യത്യസ്തമായിരിക്കും അതിനാലാണ് മേഖല ഒന്ന് ഉദാഹരണത്തിന് വായു 1 ആയിരിക്കാം ഈ മേഖല 2 മറ്റെന്തെങ്കിലും മരം ശരിയായിരിക്കാം അതിനാൽ ചിലത് വ്യത്യസ്തമാണ് അതിനാൽ ഇപ്പോൾ കംപ്യൂട്ടേഷണൽ എമ്മിലെ ഏത് പ്രശ്നത്തിലും നമുക്ക് ആരംഭിക്കാം ഞങ്ങൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ കോഴ്സിന്റെ അവസാനം നിങ്ങൾ ആശ്ചര്യപ്പെടും ഓരോ പ്രശ്നവും ഈ രണ്ടോ നാലോ സമവാക്യങ്ങളിൽ നിന്ന് എങ്ങനെ ആരംഭിക്കുന്നു നമുക്ക് ഒരു പരിഹാരം ലഭിക്കുന്നു അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളാണ് ഞാൻ അവിടെ എഴുതിയത് നിങ്ങളുടേതും നിലവിലെ പദവും റൈറ്റ് എന്ന പദത്തിൽ വരുന്നു അതിനാൽ ഇത് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായിരിക്കണം ഇപ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രത്യേക പ്രശ്നത്തിൽ ഈ സമവാക്യങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് അതിനാൽ എനിക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറയാം രണ്ട് വേരിയബിളുകളിൽ രണ്ട് സമവാക്യങ്ങൾ ഉണ്ട് വേരിയബിളുകൾ എന്തൊക്കെയാണ് വേരിയബിളുകൾ വിദ്യാർത്ഥി ഇ എച്ച് ഇ എച്ച് എന്നിവ അജ്ഞാതമാണ് അതാണ് ഞാൻ നിർണ്ണയിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകിയത് എപ്സിലോണും ജെ ശരിയും അതാണ് എനിക്ക് നൽകിയിരിക്കുന്നത് അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളിൽ നിന്ന് വേരിയബിളുകളിലൊന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കാം അതിനാൽ നമുക്ക് ഒരു വേരിയബിളിന്റെ സമവാക്യം ഉണ്ടാക്കാം നമുക്ക് കാന്തികക്ഷേത്രം ശരിയാക്കാം അതിനാൽ ഞാൻ അത് ചെയ്യാൻ നിങ്ങൾ എങ്ങനെ നിർദ്ദേശിക്കും വിദ്യാർത്ഥി ആദ്യ സമവാക്യത്തിന്റെ ചുരുളൻ ഞാൻ ആദ്യത്തെ സമവാക്യത്തിന്റെ ഒരു ചുരുളൻ എടുത്താൽ ശരി ഞാൻ ഡെൽ ക്രോസ് ഡെൽ ക്രോസ് E ചെയ്യുകയാണെങ്കിൽ വെക്റ്റർ കാൽക്കുലസിൽ നിന്ന് നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മോട് തുല്യമാണോ വിദ്യാർത്ഥി അതിനാൽ അവഗണനയുണ്ട് അതിനാൽ മിക്കവാറും എല്ലാ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളേയും പോലെ ശരിക്ക് ചുറ്റും കാന്തിക പദാർത്ഥങ്ങളൊന്നുമില്ലെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓകെ എടുത്തിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അനുമാനങ്ങളിൽ നോൺ മാഗ്നെറ്റിക് മീഡിയ ശരി എന്ന് പറയാം ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു അനുമാനമല്ല എനിക്ക് ഇത് വിശ്രമിക്കാം ഗണിതം കുറച്ചുകൂടി സങ്കീർണ്ണമാകുന്നു പക്ഷേ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതൊന്നും ശരിയല്ല അതിനാൽ ഞങ്ങൾ ഇപ്പോൾ കാന്തികമല്ലാത്ത മീഡിയയുമായി ഇടപെടും അതിനാൽ മിക്കവാറും എല്ലാ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളേയും പോലെ ശരിക്ക് ചുറ്റും കാന്തിക പദാർത്ഥങ്ങളൊന്നുമില്ലെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓകെ എടുത്തിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അനുമാനങ്ങളിൽ നോൺ മാഗ്നെറ്റിക് മീഡിയ ശരി എന്ന് പറയാം ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു അനുമാനമല്ല എനിക്ക് ഇത് വിശ്രമിക്കാം ഗണിതം കുറച്ചുകൂടി സങ്കീർണ്ണമാകുന്നു പക്ഷേ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതൊന്നും ശരിയല്ല അതിനാൽ ഞങ്ങൾ ഇപ്പോൾ കാന്തികമല്ലാത്ത മീഡിയയുമായി ഇടപെടും വിദ്യാർത്ഥി അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ z ഡൈമൻഷനിൽ ഭൌതികശാസ്ത്രം നടക്കുന്നില്ല z മാനത്തിൽ എല്ലാം മാറ്റമില്ലാത്തതാണ് അതിനാൽ ഈ തടസ്സം ഉയരമുള്ള ഒരു സിലിണ്ടർ വലത് പോലെ z ദിശയിൽ അനന്തമായി നീളമുള്ളതാണ് അതിനാൽ എന്റെ എല്ലാ ഫംഗ്ഷനുകളും എന്റെ എല്ലാ ഫീൽഡുകളും x y എന്നിവയുടെ മാത്രം ഫംഗ്ഷനുകളാണെന്നും ശരിയാണ് ഇപ്പോൾ നിങ്ങളുടെ അണ്ടർഗ്രേഡിൽ വേവ് ഗൈഡുകളും മറ്റും പഠിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരും ഒരു 2D പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പൊതു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം രണ്ട് ഓർത്തോഗണൽ ധ്രുവീകരണങ്ങളായി വിഭജിച്ച് പഠിക്കാം കാന്തിക തിരശ്ചീന വൈദ്യുത വലത് അതിനാൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന രണ്ട് ധ്രുവീകരണങ്ങളാണിവ ഏത് പൊതുവായ പരിഹാരത്തിനും പൊതുവായ പ്രശ്നത്തിനും TM TE എന്നിവയുടെ സൂപ്പർപോസിഷനായി ഉത്തരം നൽകാനാകും അതിനാൽ ടിഎം വെവ്വേറെ സോൾവ് സോൾവ് TE യെ വെവ്വേറെ പരിഹരിക്കാം അത് ജീവിതം ലളിതമാക്കുന്നു അതിനാൽ തിരശ്ചീന കാന്തിക ധ്രുവീകരണം ശരിയാണ് തിരശ്ചീന കാന്തികമാണ് അപ്പോൾ തിരശ്ചീന കാന്തികത്തിന്റെ കാര്യത്തിൽ ഫീൽഡുകളെ ഞാൻ എങ്ങനെ വിശേഷിപ്പിക്കും അപ്പോൾ ശരി അതിനാൽ ഇത് സ്വഭാവ സവിശേഷതകളാണെന്നും മറ്റെന്താണ് എന്നും നമുക്ക് പറയാൻ കഴിയും വിദ്യാർത്ഥി TM ധ്രുവീകരണത്തിന്റെ കാര്യത്തിൽ ഇവ അജ്ഞാതമാണ് കൂടാതെ TE ധ്രുവീകരണത്തിന് സമാനമായി മറ്റ് അജ്ഞാതരും ഉണ്ട് അപ്പോൾ അജ്ഞാതമായത് എന്തായിരിക്കും അതിനാൽ ഞങ്ങൾ ഇവിടെ പറയുന്നു ശരിയാണ് ഇപ്പോൾ തിരശ്ചീന കാന്തികം എന്നും തിരശ്ചീന ഇലക്ട്രിക് എന്നും വിളിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഈ ആശയം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു സാഹിത്യത്തിൽ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത കൺവെൻഷനുകൾ കാണാം വേവ് ഗൈഡിന് ആളുകൾക്ക് ടിഎം എന്താണെന്നതിന് ഒരു നിശ്ചിത കൺവെൻഷനുണ്ട് കൂടാതെ വൈദ്യുതകാന്തിക ചിതറിക്കിടക്കുന്ന ആളുകൾക്ക് വിപരീത കൺവെൻഷനുമുണ്ട് അതിനാൽ അവർ TM അല്ലെങ്കിൽ TE എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നിയേക്കാം ഏത് z ഘടകമാണ് 0 ശരി എന്ന് സജ്ജീകരിക്കുന്നതെന്ന് കാണുക അതിനാൽ അത് അവ്യക്തമാണ് കാരണം ചില സ്ഥലങ്ങളിൽ നിങ്ങൾ മറ്റൊരു വഴിയും കണ്ടെത്തിയേക്കാം അതിനാൽ സംഭവിക്കുന്ന ഗണിതശാസ്ത്രപരമായ വ്യുൽപ്പന്നത്തെ കൂടുതൽ ലളിതമാക്കുന്നതിന് നമുക്ക് ഒരു അനുമാനം കൂടി നടത്താം നമുക്ക് TM ധ്രുവീകരണം ശരിയാക്കാം TE യും ചെയ്യാം പക്ഷേ നമുക്ക് TM ധ്രുവീകരണത്തിൽ നിന്ന് ആരംഭിക്കാം അതിനാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു അതിനാൽ അവർ TM അല്ലെങ്കിൽ TE എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നിയേക്കാം ഏത് z ഘടകമാണ് 0 ശരി എന്ന് സജ്ജീകരിക്കുന്നതെന്ന് കാണുക അതിനാൽ അത് അവ്യക്തമാണ് കാരണം ചില സ്ഥലങ്ങളിൽ നിങ്ങൾ മറ്റൊരു വഴിയും കണ്ടെത്തിയേക്കാം അതിനാൽ സംഭവിക്കുന്ന ഗണിതശാസ്ത്രപരമായ വ്യുൽപ്പന്നത്തെ കൂടുതൽ ലളിതമാക്കുന്നതിന് നമുക്ക് ഒരു അനുമാനം കൂടി നടത്താം നമുക്ക് TM ധ്രുവീകരണം ശരിയാക്കാം TE യും ചെയ്യാം പക്ഷേ നമുക്ക് TM ധ്രുവീകരണത്തിൽ നിന്ന് ആരംഭിക്കാം അതിനാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു വിദ്യാർത്ഥി x TM ധ്രുവീകരണങ്ങൾ ആദ്യ ടേമിന് എന്ത് സംഭവിക്കും വിദ്യാർത്ഥി 0 0 ഇല്ല രണ്ടാം ടേം വിദ്യാർത്ഥി 0 0 മൂന്നാം ടേം 0 ശരി കാരണം പൂജ്യമല്ല എന്നാൽ z ന്റെ ഒരു ഫംഗ്ഷൻ ശരിയല്ല എല്ലാ കാര്യങ്ങളും x y വലത് എന്നിവയുടെ മാത്രം പ്രവർത്തനമാണെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ മൂന്ന് പദങ്ങളും 0 ആണ് അതിനാൽ അത് ഞങ്ങൾക്ക് വളരെ മികച്ചതാണ് കാരണം ഞാൻ ഇവിടെ എഴുതിയ പദത്തിന് എന്ത് സംഭവിക്കുന്നു എന്നത് ശരിയാണ് E യുടെ വ്യതിചലനം 0 ലേക്ക് പോകുന്നു അതിനാൽ എനിക്ക് ഇപ്പോൾ എനിക്ക് ഇത് മാറ്റിസ്ഥാപിക്കാം അതായത് ഞാൻ ഇടതുവശത്തുള്ള ചുരുളൻ എടുത്തു അതുപോലെ വലതുവശത്തുള്ള ചുരുളൻ ഞാൻ എടുക്കും അതിനാൽ എനിക്ക് എന്ത് ലഭിക്കും എനിക്ക് കിട്ടും ഇത് ഇടത് വശത്ത് നിന്നാണ് വലതുവശത്ത് മാറും അതിനാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് j പദം ഒരു വശത്ത് സൂക്ഷിക്കുക എന്നതാണ് അതിനാൽ ഇതാണ് സമവാക്യം ശരിയായി പിന്തുടരുന്നത് അതിനാൽ എല്ലാ അടയാളങ്ങളും പരിശോധിക്കുക ശരിയാണ് അതിനാൽ ഇത് ഞാൻ ഇത് കൊണ്ടുവരുന്നു ഞാൻ ഈ J പദം ഇടതുവശത്ത് വലത്തേക്ക് നീക്കുന്നു അതിനാൽ അതുകൊണ്ടാണ് എനിക്ക് ലഭിക്കുന്ന സമവാക്യം ഇതാണ് അതിനാൽ ഇതിനെ Helmholtz സമവാക്യം എന്ന് വിളിക്കുന്നു ചില ആളുകൾ ഇതിനെ ഒരു ഏകതാനമല്ലാത്ത Helmholtz സമവാക്യം എന്ന് വിളിക്കാം കാരണം വലതുഭാഗം പൂജ്യമല്ല ഇത് പൊതുവേ ഞാൻ അനുമാനങ്ങളൊന്നും ശരിയാക്കാത്തതിനാൽ ഇത് റീജിയൻ 1 റീജിയൻ 2 എന്നിവയ്ക്ക് ശരിയാണോ എന്ന് റീജിയൻ 1 ൽ എന്താണ് സംഭവിക്കുന്നത് ആ epsilon r വാക്വമിനും കറന്റിനും ആയിരിക്കും റീജിയൻ 2ൽ എപ്സിലോൺ സംഭവിക്കുന്നത് ഒബ്ജക്റ്റ് കറന്റ് 0 ആയിരിക്കും അതിനാൽ ഈ ഒരു സമവാക്യം പ്രദേശങ്ങൾ 1 2 എന്നിവയ്ക്ക് ശരിയാണ് അതിനാൽ വളരെ നല്ലത് ഈ പ്രതലത്തെ ഞാൻ ഇവിടെ ഒരു സാധാരണ വെക്ടറാണ് ചിത്രീകരിക്കാൻ പോകുന്നത് നമുക്ക് മുന്നോട്ട് പോയാൽ ശരി അതിനാൽ ഈ സ്ലൈഡിൽ ഞങ്ങൾക്ക് ധാരാളം വെക്ടറുകൾ ഉണ്ടായിരുന്നു എല്ലായിടത്തും ധാരാളം വെക്ടറുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ 2D പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനാൽ നൊട്ടേഷൻ കഴിയുന്നത്ര ലളിതമാക്കാൻ ശ്രമിക്കാം അതിനാൽ ഇത് വീണ്ടും ഞങ്ങളുടെ ജ്യാമിതിയാണ് ഇത് എന്റെ മേഖല 2 ആണ് ഇവിടെയും ഉപരിതലത്തിൽ S ഉം സാധാരണമാണ് ഇതാണ് എന്റെ മേഖല 1 ഇതാണ് എന്റെ നിലവിലെ ഉറവിടം J അതിനാൽ നമ്മൾ ഇതിനകം കണ് മെറ്റീരിയൽ പ്രോപ്പർട്ടികൾ മെറ്റീരിയൽ പ്രോപ്പർട്ടികളുടെ സ്വഭാവമാണ് x y വലത് ഫംഗ്ഷൻ ആയിരിക്കും ഇപ്പോൾ വയലുകളും വൈദ്യുതധാരകളും അതിനാൽ ഞങ്ങൾ TM ധ്രുവീകരണവുമായി പ്രവർത്തിക്കുന്നു അതിനാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഈ മൂന്ന് അളവുകളിൽ ഓരോന്നും സ്കെയിലറുകൾ ഞാൻ അർത്ഥമാക്കുന്നത് വൈദ്യുത മണ്ഡലത്തിന്റെ z ഘടകം ആണെങ്കിൽ സ്കെയിലർ ആണ് അതിനാൽ ഇത് സ്കെയിലർ ഫംഗ്ഷൻ ശരിയാണ് അതിനാൽ ഇവയെല്ലാം സ്കെയിലർ ഫംഗ്ഷനുകളാണ് ശരി അതിനാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു ഞാൻ മേഖല 1 ലും മേഖല 2 ലും സൂചിപ്പിക്കാൻ പോകുന്നു ഇപ്പോൾ ഈ മൂന്ന് അളവുകളിൽ ഓരോന്നും സ്കെയിലറുകൾ ശരിയാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നത് വൈദ്യുത മണ്ഡലത്തിന്റെ z ഘടകം ആണെങ്കിൽ സ്കെയിലർ ആണ് അതിനാൽ ഇത് സ്കെയിലർ ഫംഗ്ഷൻ ശരിയാണ് അതിനാൽ ഇവയെല്ലാം സ്കെയിലർ ഫംഗ്ഷനുകളാണ് ശരി അതിനാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു ഞാൻ മേഖല 1 ലും മേഖല 2 ലും സൂചിപ്പിക്കാൻ പോകുന്നു ഇത് ഒരു വെക്റ്റർ ഒരു വെക്ടറിൽ പ്രവർത്തിക്കുന്നു അത് ഒരു വെക്റ്റർ ഉൽപ്പാദിപ്പിക്കും TM ധ്രുവീകരണത്തിൽ ഈ വെക്റ്റർ ഏത് ദിശയിലാണ് വൈദ്യുത മണ്ഡലം ഏത് ദിശയിലാണ് വിദ്യാർത്ഥി Z Z ദിശ അപ്പോൾ ഇടത് വശം ആദ്യ പദം z ദിശയിലുള്ള ഒരു വെക്ടറാണ് രണ്ടാമത്തെ പദം ഏത് ദിശയിലുള്ള വെക്ടറാണ് Z ദിശയിലുള്ള ഒരു വെക്ടറിനെ z ദിശയിൽ ഗുണിക്കുന്ന സ്കെയിലറുകളുടെ ഒരു കൂട്ടം അങ്ങനെ z അതിനാൽ z ദിശയിൽ z കറന്റ് ഉള്ളത് അർത്ഥമാക്കുന്നു അതിനാൽ ഈ മുഴുവൻ x സമവാക്യത്തിന്റെയും z ഘടകം ഞാൻ എടുക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് ഇവിടെ ലഭിക്കുക അതിനാൽ ഈ J പദം ഇവിടെ ഞാൻ എഴുതാം അതിനാൽ ഈ ലളിതവൽക്കരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് രണ്ട് പ്രദേശങ്ങൾക്കും ഹെൽംഹോൾട്ട്സ് സമവാക്യങ്ങൾ എഴുതാം അതിനാൽ റീജിയൻ 1 ആദ്യ ടേം നിങ്ങൾക്ക് ഈ എപ്പോഴായിരുന്നു അതിനാൽ കാരണം നമുക്ക് ഇത് ലളിതമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഒഴിവാക്കാനും പ്രകാശവേഗതയിൽ എഴുതാനും കഴിയും ആ പ്രകാശവേഗത ഒരു തരംഗ സംഖ്യയായി മാറ്റാൻ കഴിയും അതിനാൽ നിങ്ങൾ ആ ലളിതവൽക്കരണം നടത്തിക്കഴിഞ്ഞാൽ റീജിയൻ 1 ലെ വേവ് നമ്പർ എല്ലാം മാറ്റിയെഴുതിയതിനാൽ എനിക്ക് അതിനെ ഒരു പുതിയ സ്ഥിരാങ്കത്തിലേക്ക് ചുരുക്കാൻ കഴിയും റീജിയൻ 2 അതേ പാചകക്കുറിപ്പ് ശരിയാണ് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പദം ഇവിടെ ശരിയാണ് ശരി k എന്നത് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം എന്നാൽ എപ്സിലോൺ സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ k എന്നത് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ k യും സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഒരു ഞാൻ എല്ലാ അധിക വേരിയബിളുകളും കുറയ്ക്കാനും അവയെ ഒരു വേരിയബിളിലേക്ക് ഘനീഭവിപ്പിക്കാനും ശ്രമിക്കുന്നു അതിനാൽ ഇത് കാണാൻ എളുപ്പമാണ് അതിനാൽ നമുക്ക് ലഭിച്ച രണ്ട് സമവാക്യങ്ങളാണ് ഇവ ഇപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ ശരിയായി പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ സമവാക്യങ്ങൾ നോക്കുക എന്നതാണ് ഞാൻ അർത്ഥമാക്കുന്നത് മുമ്പത്തെ ക്ലാസ് വലത്തിൽ നമ്മൾ കാണിക്കുന്ന ഇന്റഗ്രൽ സമവാക്യത്തേക്കാൾ ഇത് വളരെ സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അത് എങ്ങനെ പരിഹരിക്കും